നമസ്കാരം TALE ന്റെ മൊഡ്യൂൾ 2 ന്റെ യൂണിറ്റ് 2 ലേക്ക് സ്വാഗതം കോഴ്സ് ഡിസൈനിന്റെ പങ്കുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു മൊഡ്യൂൾ 2 ന്റെ യൂണിറ്റ് 1 ആയ മുമ്പത്തെ യൂണിറ്റിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ സ്വഭാവവും റെഗുലേറ്ററി അക്രഡിറ്റേഷൻ മെക്കാനിസങ്ങളും അവ രൂപകൽപ്പന ചെയ്യുകയും നടത്തുകയും ചെയ്യേണ്ട എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ സവിശേഷതകളും നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഈ പരിമിതികളെയും മറ്റും പറ്റി നാം നിർബന്ധം പിടിക്കുന്നത് ഒരു കോഴ്സും ഒറ്റക്കായി കാണരുത് എന്നാലും ഓരോ കോഴ്സും ഓരോ ഫാക്കൽറ്റി അംഗവും ഏതാണ്ട് ഒറ്റക്കായി കാണുന്ന ഒരു സാഹചര്യത്തിലാണ് അവസാനിക്കുന്നത് നിരവധി കോഴ്സുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രോഗ്രാം രൂപീകരിക്കുന്നു ഈ കോഴ്സുകളിലൂടെ ചില ഫലങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് അതിനാൽ എല്ലാ കോഴ്സുകളും ഒരു പങ്ക് വഹിക്കുന്നു കൂടാതെ ധാരാളം പരസ്പര ബന്ധങ്ങളുണ്ട് അവ മാനിക്കപ്പെടേണ്ടതുണ്ട് ഈ പരസ്പര ബന്ധങ്ങളും പരസ്പരാശ്രിതത്വങ്ങളും കണക്കിലെടുത്ത് മുഴുവൻ പ്രോഗ്രാമും രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് ഈ യൂണിറ്റ് 2 ന്റെ പ്രധാന ഫലം ഒരു കോഴ്സിന്റെ പങ്ക് മനസിലാക്കുക വിദ്യാർത്ഥികൾക്ക് നല്ല പഠനത്തിന് സൌകര്യമൊരുക്കുന്ന രീതിയിൽ അത് വിഭാവനം ചെയ്യുക എന്നതാണ് ഇപ്പോൾ അധ്യാപനത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഈ മോഡൽ ഫിങ്കിന്റെ മോഡലിനെ Fink's model അടിസ്ഥാനമാക്കിയുള്ളതാണ് റഫറൻസ് മറ്റൊരു സ്ഥലത്ത് നൽകും അധ്യാപനത്തിന്റെ നാല് ഘടകങ്ങളുണ്ടെന്ന് ഫിങ്ക് നിർദ്ദേശിച്ചു ക്ലാസ് മുറിയിലെ ആശയവിനിമയത്തിന്റെ ആരംഭം വേർതിരിച്ച് കാണിക്കുന്ന ഒരു വരയുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് കോഴ്സ് ആരംഭിക്കുന്നതിന് മുമ്പായി വിഷയത്തെക്കുറിച്ചുള്ള അറിവും കോഴ്സിന്റെ രൂപകൽപ്പനയും ആണ് മുഖ്യം കുറച്ച് ഓവർലാപ്പ് ഉണ്ട് കോഴ്സ് യഥാർത്ഥത്തിൽ നടക്കുമ്പോൾ അധ്യാപക വിദ്യാർത്ഥികളുടെ ഇടപെടലും കോഴ്സ് മാനേജുമെന്റും കോഴ്സിന്റെ പെരുമാറ്റ സമയത്ത് ആധിപത്യം പുലർത്തുന്ന ഘടകങ്ങളാകുന്നു കോഴ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് വിഷയത്തെക്കുറിച്ചുള്ള അറിവും കോഴ്സ് രൂപകൽപ്പനയും ആണ് കാര്യമായി എടുക്കേണ്ടത് അതിനാൽ വിശാലമായി പറഞ്ഞാൽ അത് നൽകിയിട്ടുള്ള ഒരു മാതൃകയാണ് ഇത് ഈ ഘടകങ്ങളിൽ ഓരോന്നും നോക്കാം ഒരു കോഴ്സ് എടുക്കുന്നതിനുള്ള മുൻവ്യവസ്ഥ വ്യക്തമായുള്ള വിഷയത്തെക്കുറിച്ചുള്ള അറിവാണ് അധ്യാപകന് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് നല്ല അറിവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ കോളേജ് ഫാക്കൽറ്റി അംഗങ്ങളിൽ ഭൂരിഭാഗത്തിനും വിഷയത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട് കാലാകാലങ്ങളിൽ വിഷയം പരിവർത്തിച്ചുക്കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ പുതിയ അറിവുകൾ നേടാൻ ചില ഹ്രസ്വകാല കോഴ്സുകളിൽ പോയി പങ്കെടുക്കാൻ ഫാക്കൽറ്റികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം സംവിധാനങ്ങൾ ലഭ്യമാണ് ആവശ്യമായ വിഷയങ്ങളിലെ അവരുടെ വൈദഗ്ധ്യത്തെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ കോളേജുകളിലും ഫാക്കൽറ്റികളെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ തുടക്കത്തിലെ പഠിതാക്കളുടെ വിഷയ ആവശ്യങ്ങളിൽ പരിശീലനം നേടുന്നതിലൂടെ ഫാക്കൽറ്റിക്ക് ഇപ്പോഴും പ്രയോജനം നേടാമെന്ന് അവർക്കറിയാം ഒരു കാര്യം ഓർമ്മിക്കേണ്ടതാണ് വിഷയത്തെക്കുറിച്ചുള്ള അറിവ് ഒരു മുൻവ്യവസ്ഥയാണ് എന്നാൽ അധ്യാപകർ ഉൾപ്പെട്ടിരിക്കേണ്ടത് വിദ്യാർത്ഥികളെ പഠിക്കാൻ സഹായിക്കുക എന്നതിലാണ് പഠനം എങ്ങനെ നടക്കുന്നു എന്നത് സാധാരണയായി ഏതെങ്കിലും പുതിയ അധ്യാപകർക്ക് അറിയാവുന്ന ഒരു മേഖലയല്ല ഒരുപക്ഷേ അനുഭവത്തിലൂടെ അയാൾക്ക് എന്തെങ്കിലും മനസ്സിലായേക്കാം പക്ഷേ അയാൾക്ക് ഒരിക്കലും ഔദ്യോഗികമായി അതിനുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ചും ആരംഭ പഠിതാക്കളുടെ ആവശ്യങ്ങൾ അറിയാൻ ഞാൻ കോഴ്സ് ആരംഭിക്കുമ്പോൾ അവർ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ചില ആശയങ്ങൾ ഉണ്ട് അവ കൃത്യമായി എന്താണെന്നും എന്റെ വിദ്യാർത്ഥികളെ എന്റെ ഇപ്പോഴത്തെ കോഴ്സിനായി ഞാൻ എങ്ങനെ സജ്ജമാക്കും എന്നൊക്കെ അറിയുന്നത് എല്ലാ ഫാക്കൽറ്റികൾക്കും പ്രയോജനം ചെയ്യും മികച്ച അധ്യാപനത്തിനും പഠനത്തിനും വിഷയത്തിലെ അറിവ് പൊതുവെ ഒരു പ്രധാന തടസ്സമല്ല അതിനാൽ നമ്മൾ ഇത് കാര്യമായി എടുക്കുന്നില്ല കാലാകാലങ്ങളിൽ എല്ലാ ഫാക്കൽറ്റികൾക്കും വിഷയത്തിന്റെ നിലവാരം ഉയർത്തേണ്ടതുണ്ട് ഇതിനായി ഇതിനകം തന്നെ നന്നായി ചിട്ടപ്പെടുത്തിയ പ്രോഗ്രാമുകൾ ലഭ്യമാണ് എന്നാൽ അധ്യാപകന് വിഷയത്തെക്കുറിച്ച് നല്ല അറിവുണ്ടെന്ന ധാരണയോടെയാണ് നമ്മൾ ആരംഭിക്കുന്നത് ഈ ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് വിക്കിപീഡിയയും ഗൂഗിളും ഉണ്ട് മാത്രമല്ല ഏത് വിഷയവും അധ്യാപകന് എളുപ്പത്തിൽ ലഭ്യമാകും ഇനി വരുന്നത് ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വശം ആണ് അധ്യാപകർ വിദ്യാർത്ഥികളുമായി നടത്തുന്ന എല്ലാ ഇടപെടലുകളെയും ഇത് സൂചിപ്പിക്കുന്നു എന്താണ് ഈ ഇടപെടലുകൾ പ്രഭാഷണം ട്യൂടറിംഗ് മെന്ററിംഗ് ചർച്ചകൾ വിദ്യാർത്ഥികളുമായി ഇമെയിൽ വഴിയും വാട്ട്സ്ആപ്പ് വഴിയുമുള്ള ആശയവിനിമയം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു അതിനാൽ ധാരാളം ഇടപെടലുകൾ നടക്കുന്നു അവയെല്ലാം അധ്യാപക വിദ്യാർത്ഥി ഇടപെടലിനെ പരാമർശിക്കുന്നു രസകരമായ കാര്യം നിങ്ങൾ എല്ലാ നല്ലതോ ശരാശരിയോ അല്ലെങ്കിൽ താഴ്ന്ന നിലവാരത്തിലോ ഉള്ള സ്ഥാപനങ്ങളെ നോക്കുകയാണെങ്കിൽ ഈ നൈപുണ്യമാണ് മോശമായതിൽ നിന്നും മികച്ചത്തിലേക്ക് അവയെ നയിക്കുന്നത് എന്ന് കാണാം നിർഭാഗ്യവശാൽ ആരെങ്കിലും മോശം അധ്യാപക വിദ്യാർത്ഥി ഇടപെടലിലൂടെ ആരംഭിക്കുകയാണെങ്കിൽ എങ്ങനെയോ അധ്യാപകൻ ആ നിലയിൽ തുടരുന്നു എന്നാൽ ഓരോ അധ്യാപകനും വിദ്യാർത്ഥികളുടെ ഇടപെടലിൽ തുടർച്ചയായ പുരോഗതി വരുത്താൻ കഴിയും അദ്ദേഹം വിരമിക്കലിനടുത്താണെങ്കിലും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും വ്യക്തിക്ക് അധ്യാപക വിദ്യാർത്ഥി ഇടപെടലുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെടാൻ കഴിയും ഒരു അധ്യാപകനെന്ന നിലയിൽ നിങ്ങൾ അത് അംഗീകരിച്ചുകഴിഞ്ഞാൽ ഈ അധ്യാപക വിദ്യാർത്ഥി ഇടപെടൽ നിങ്ങൾ തുടർന്നും പഠിക്കുകയോ മെച്ചപ്പെടുത്തുകയോ ചെയ്യും വിദ്യാർത്ഥികളെ പ്രചോദിതരാക്കുന്നതിൽ അധ്യാപക വിദ്യാർത്ഥി ഇടപെടലിന് ഒരു പ്രധാന പങ്കുണ്ട് നമുക്കെല്ലാവർക്കും ഇത് പരിചിതമാണ് പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് കൂടാതെ അധ്യാപക വിദ്യാർത്ഥികളുടെ ഇടപെടൽ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് കോഴ്സ് മാനേജുമെന്റ് ഇത് കോഴ്സിലെ വ്യത്യസ്ത സംഭവങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിന്റെ പല വശങ്ങളും സ്ഥാപനത്തിലും വകുപ്പിലും അല്ലെങ്കിൽ ചിലപ്പോൾ സർവകലാശാല പോലും ആസൂത്രണം ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് സാധാരണ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഒരു ഷെഡ്യൂൾ ഉണ്ട് കോഴ്സ് എപ്പോൾ ആരംഭിക്കണം നിങ്ങളുടെ പ്രഭാഷണ പദ്ധതി എപ്പോൾ ലഭ്യമാക്കണം എപ്പോൾ പരീക്ഷകൾ നടത്തണം അല്ലെങ്കിൽ അസൈൻമെന്റുകൾ നൽകണം മുഴുവൻ പ്രക്രിയയും അല്ലെങ്കിൽ കോഴ്സിന്റെ ഗ്രേഡ് ലഭിക്കുന്നതുവരെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എല്ലാം പൊതുവെ യൂണിവേഴ്സിറ്റി ചട്ടക്കൂടിനുള്ളിലോ സ്ഥാപന ചട്ടക്കൂടിനുള്ളിലോ ആസൂത്രണം ചെയ്യപ്പെട്ടവയാണ് അതുകൊണ്ട് ഇത് ഒരു പ്രധാന പ്രശ്നമല്ല അസൈൻമെന്റുകളിലും ടെസ്റ്റുകളിലും വിദ്യാർത്ഥികളുടെ പ്രകടനത്തെക്കുറിച്ച് ഉടനടി പ്രതികരണം നൽകുക എന്നതാണ് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില അധിക കാര്യങ്ങൾ അത് കൃത്യസമയത്ത് നൽകിയാൽ വിദ്യാർത്ഥിയുടെ അന്തിമ പ്രകടനം ഗണ്യമായി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ വെബ്സൈറ്റുകൾക്കും ഇന്റർനെറ്റ് ആശയവിനിമയത്തിനും അധ്യാപകന് പഴി കേൾക്കാതെ കോഴ്സ് മാനേജുമെന്റിനെ വളരെയധികം സഹായിക്കുന്നു നിങ്ങൾ MOODLE പോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പഠന മാനേജുമെന്റ് സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ കോഴ്സ് മാനേജ്മെന്റിനെ കൂടുതൽ മികച്ചതാക്കാൻ കഴിയും അതായത് നിങ്ങൾക്ക് വ്യക്തിഗതമായി ഇമെയിലുകൾ എഴുതാതെയും പ്രിന്റ ഔട്ടുകൾ എടുക്കാതെയും ഒരു അസൈൻമെന്റ് അയയ്ക്കാനോ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിൽ അഭിപ്രായങ്ങൾ അയയ്ക്കാനോ കഴിയും ഇൻറർനെറ്റിനോ പഠന മാനേജ്മെന്റ് സിസ്റ്റത്തിനോ വളരെയധികം സഹായിക്കാൻ സാധിക്കും ഈ ദിവസങ്ങളിൽ സ്മാർട്ട്ഫോൺ ഒരു ക്ലാസ് റൂം ആശയവിനിമയത്തിന്റെയും കോഴ്സ് മാനേജുമെന്റിന്റെയും അവിഭാജ്യ ഘടകമായി മാറികൊണ്ടിരിക്കുന്നു കോഴ്സ് രൂപകൽപ്പന അവസാന ഘടകം അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് കോഴ്സിന്റെ അവസാനം വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കോഴ്സ് outcomes എഴുതാൻ കഴിയുക എന്നത് അടങ്ങിയിരിക്കുന്നു കോഴ്സ് outcomes എങ്ങനെ എഴുതാം എന്നത് മൊഡ്യൂൾ 1 ൽ കൈകാര്യം ചെയ്തിരുന്നു വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന വിലയിരുത്തലുകൾ രൂപകൽപ്പന ചെയ്യുന്നു ഈ assessments കോഴ്സ് രൂപകൽപ്പനയുടെ ഒരു അളവുകോലാണ് ഫോർമാറ്റീവ് അസസ്മെന്റും സമ്മേറ്റിവ് അസസ്മെന്റും പ്രഖ്യാപിത കോഴ്സ് outcomes കൈവരിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഫോർമാറ്റീവ് അസസ്മെന്റ് ഉൾപ്പെടെയുള്ള ആസൂത്രണ നിർദ്ദേശങ്ങൾ അടുത്ത ഘട്ടമാണ് അതിനാൽ കോഴ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് സെമസ്റ്ററിന്റെ തുടക്കത്തിൽ നിങ്ങൾ അത് മുൻകൂട്ടി ചെയ്താൽ അത് കോഴ്സ് ഡിസൈനാണ് ഇപ്പോൾ നിലവിലെ രീതികളിലേക്ക് വന്നാൽ മിക്ക ഫാക്കൽറ്റി അംഗങ്ങളും വിദ്യാർത്ഥികളായി അവർ അനുഭവിച്ച പ്രക്രിയ പിന്തുടരുന്നു അതിനാൽ നിങ്ങൾ എന്തുചെയ്യുന്നു നിങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്രോസസ്സ് പിന്തുടരുന്നില്ല എന്നാൽ നിങ്ങൾ മനസിലാക്കുന്ന ചില വ്യക്തമായ പ്രക്രിയകളുണ്ട് കൂടാതെ നിങ്ങളുടെ സ്വന്തം കോഴ്സ് ഫയൽ തയ്യാറാക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു ഒരു അദ്ധ്യാപകന്റെ ഒരു കോഴ്സ് ഫയൽ മറ്റ് ഫാക്കൽറ്റി അംഗങ്ങളുടെ കോഴ്സ് ഫയലിന്റെ ഘടനയിൽ നിന്ന് കാര്യമായി വ്യത്യാസപ്പെട്ടിരിക്കാം മിക്ക അധ്യാപകരും ഒരു സ്റ്റാൻഡേർഡ് പ്രക്രിയയും പിന്തുടരുന്നില്ല ഫാക്കൽറ്റിമാർ അവരുടെ അദ്ധ്യാപനത്തിൽ പതിവായി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പഠന നിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിനും കോഴ്സ് രൂപകൽപ്പനയ്ക്ക് ഏറ്റവും വലിയ പങ്കുണ്ടെന്ന് ഫീൽഡ് സർവേകളിലൂടെ നിരീക്ഷിക്കപ്പെട്ടു പലതവണ നിങ്ങളുടെ വൈദഗ്ധ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത്ര മികച്ച ആൾ അല്ലെങ്കിലും അല്ലെങ്കിൽ വിദ്യാർത്ഥി അധ്യാപക ഇടപെടലുമായി ബന്ധപ്പെട്ട് ചില അന്തർലീനമായ പരിമിതികളുണ്ടെങ്കിലും ഒരു നല്ല കോഴ്സ് രൂപകൽപ്പനയ്ക്ക് ഈ പരിമിതികളിൽ ചിലത് മറികടന്ന് പഠന നിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്താൻ കഴിയും ചില കോഴ്സ് ഡിസൈൻ പ്രക്രിയ പിന്തുടരാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ മൊഡ്യൂളിന്റെ ഭാഗമായി ഞങ്ങൾ ഒരു പ്രോസസ്സ് വാഗ്ദാനം ചെയ്യാൻ പോകുന്നു എന്നാൽ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ദയവായി മുന്നോട്ട് പോകുക എന്നാൽ നന്നായി നിർവചിക്കപ്പെട്ട ചില പ്രക്രിയകൾ പിന്തുടരുക അധ്യാപകർ പതിവായി നേരിടുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലാസിലെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ നേടുക എന്നതാണ് അതായത് അവർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ 50 55 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ വിദ്യാർത്ഥികളുടെ വിരസതയായി നിങ്ങൾക്ക് ഇത് മറ്റൊരു തരത്തിൽ ഉൾപ്പെടുത്താം കുറച്ച് സമയത്തിന് ശേഷം എന്ത് കാരണം കൊണ്ട് തന്നെ ആയാലും ഒരു വിദ്യാർത്ഥിയുടെ ശ്രദ്ധ മാറിപ്പോകുന്നു അർത്ഥത്തിൽ അവൻ ശാരീരികമായി അവിടെയുണ്ട് പക്ഷേ ടീച്ചർ പറയുന്നതിനെ പിന്തുടരുന്നില്ല നിങ്ങൾക്ക് വിദ്യാർത്ഥിയുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നു എനിക്ക് വിദ്യാർത്ഥിയുടെ ശ്രദ്ധയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്തും എത്ര നന്നായി ഞാൻ ബോർഡിൽ എഴുതിയാലും ഞാൻ എന്ത് വാക്യങ്ങൾ ഉപയോഗിച്ചാലും ഒരു ഫലവുമില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ ഏറ്റവും പ്രധാനമാണ് അസൈൻമെന്റ് പ്രശ്നങ്ങൾ സ്വന്തമായി പരിഹരിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുക എന്നതാണ് മറ്റൊരു പ്രശ്നം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ശ്രമം നടത്താൻ ആഗ്രഹിക്കുന്നില്ല ആ പരിധി വരെ ഞാൻ എന്റെ കൂടെയുള്ള വിദ്യാർത്ഥിയിൽ നിന്ന് പകർത്തും ഓരോ ക്ലാസും അതിന്റേതായ ചലനാത്മകതയിൽ പ്രവർത്തിക്കുന്നു ആരെങ്കിലും അത് പരിഹരിച്ച് വാട്സാപ്പിൽ ഇടുന്നു തുടർന്ന് മറ്റുള്ളവർ അസൈൻമെന്റ് സമർപ്പിക്കാൻ അവിടെ നിന്ന് പകർത്തുന്നു എന്നാൽ പ്രശ്നം ഔപചാരിക സമർപ്പിക്കലിൽ ഒന്നല്ല അസൈൻമെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിഷയം പഠിക്കാനുള്ള ഒരു പ്രധാന മാർഗമാണ് അവർ ഈ സമയം ചെലവഴിക്കണമെന്ന് നമ്മൾ ഈ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തണം അതിനർത്ഥം ഞാൻ അസൈൻമെന്റ് പ്രശ്നം പരിഹരിക്കുമ്പോൾ ബന്ധപ്പെട്ട അറിവുകളുമായി ഞാൻ ഇടപഴകുന്നു ഞാൻ കൂടുതൽ കൂടുതൽ അറിവുകളുമായി ഇടപഴകുമ്പോൾ മാത്രമേ എനിക്ക് നന്നായി പഠിക്കാൻ കഴിയൂ അതിനാൽ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ആവശ്യമായ ശ്രമം ഞാൻ നടത്തുകയില്ല ഇത് ഒരു പ്രധാന പ്രശ്നമാണ് കോഴ്സ് രൂപകൽപ്പനയ്ക്ക് ഈ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ പരിഹരിക്കാൻ കഴിയും മറ്റൊരു പ്രധാന പ്രശ്നം ക്ലാസ്സിലേക്ക് വരുന്നതിനുമുമ്പ് വിദ്യാർത്ഥികൾക്ക് തയ്യാറാകാൻ കഴിയുമെങ്കിൽ എൻറെ ക്ലാസ്സിൽ എനിക്ക് മെച്ചമായി ചെയ്യാൻ കഴിയുന്നതും എനിക്ക് ചർച്ചകൾ ആരംഭിക്കുന്നത്തിനും സാധിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അല്ലെങ്കിൽ വ്യക്തിഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ക്ലാസ്സിലേക്ക് വരുന്നതിനുമുമ്പ് മെറ്റീരിയൽ പഠിക്കാൻ എന്റെ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് മേല്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇത് വളരെ അപൂർവമായി മാത്രമേ ചെയ്യാൻ കഴിയൂ കാരണം ക്ലാസ് മുറിയിൽ എന്തായാലും അഭിസംബോധന ചെയ്യാൻ പോകുമ്പോൾ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പായി എന്തിനാണ് സമയം ചെലവഴിക്കേണ്ടതെന്ന ധാരണയോടെ വിദ്യാർത്ഥി ക്ലാസിലേക്ക് വരുന്നു ഇത് ലോകമെമ്പാടുമുള്ള ഒരു പ്രശ്നമാണ് ക്ലാസ്സിന് മുമ്പായി വിദ്യാർത്ഥികളെ എങ്ങനെ തയ്യാറാക്കാം ചില സർവകലാശാലകളിലും ചില പ്രോഗ്രാമുകളിലും അവർ അത് നിർബന്ധമാക്കുന്നു പ്രത്യേകിച്ചും നിയമ പഠനത്തിൽ അവർ ധാരാളം വായനകൾ നൽകും വായിക്കേണ്ടതൊന്നും ക്ലാസ് മുറിയിൽ പരിഗണിക്കില്ല നിങ്ങൾ അതിൻറെ ഉള്ളടക്കങ്ങൾ ചർച്ചചെയ്യാൻ ആരംഭിക്കുക വിദ്യാർത്ഥികൾ തയ്യാറായില്ലെങ്കിൽ അവർക്ക് അവസാന ഗ്രേഡിൽ നഷ്ടം സംഭവിക്കും മറ്റൊരു പ്രധാന വിഷയം നേടിയ അറിവ് ഓർമയിൽ നിലനിർത്തുക എന്നതാണ് ടീച്ചർ വിശദീകരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നതായി തോന്നുന്നുവെങ്കിലും കുറച്ച് സമയത്തിനുശേഷം ഞാൻ ആ അറിവ് ഒരിടത്തും ഉപയോഗിക്കാത്തതിനാൽ ഉദാഹരണത്തിന് ഞാൻ അസൈൻമെൻറ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല മാത്രമല്ല ഞാൻ പരിശീലിക്കുന്നില്ല ഞാൻ അറിവ് ഉപയോഗിക്കാതിരിക്കുകയോ പരിശീലിക്കുകയോ ചെയ്യാത്തപ്പോൾ അത് ഓർമയിൽ നിന്ന് പതുക്കെ മങ്ങാൻ തുടങ്ങും അതിനാൽ അറിവ് ഓർമയിൽ നിലനിർത്താൻ സാധിച്ചെന്ന് വരില്ല കോഴ്സ് രൂപകൽപ്പനയിൽ അധ്യാപകർ നേരിടുന്ന ചില പ്രധാന പ്രശ്നങ്ങൾ ഇവയാണ് കോഴ്സ് ഡിസൈൻ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് ഞങ്ങൾ പറയില്ല പക്ഷേ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ കഴിവുണ്ട് ഇതിന് നിങ്ങൾ ചിട്ടയായ കോഴ്സ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ പലതും പരിഹരിക്കാനാകും ഈ ബന്ധ രേഖാചിത്രം അല്ലെങ്കിൽ പരസ്പരാശ്രിത രേഖാചിത്രം നോക്കാം ഈ ബന്ധങ്ങളെക്കുറിച്ച് സമ്പൂർണ്ണതയില്ല നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതൽ ചെലവഴിക്കാൻ കഴിയുമെങ്കിൽ ഈ ഘടകങ്ങളെ മറ്റൊരു രീതിയിൽ ഒരുമിച്ച് നോക്കുക കൂടാതെ അല്പം വ്യത്യസ്തമായ ഒരു ചിത്രം വരയ്ക്കാനും കഴിയും നമുക്ക് വ്യത്യസ്ത പ്രശ്നങ്ങൾ നോക്കാം ഒരു കോഴ്സിന്റെ നാല് ഘടകങ്ങൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വിഷയ പരിജ്ഞാനം വിദ്യാർത്ഥി അധ്യാപക ഇടപെടൽ കോഴ്സ് മാനേജുമെന്റ് കോഴ്സ് ഡിസൈൻ ഈ നാല് ഘടകങ്ങളെയും ഒന്നിച്ച് കോഴ്സ് ഡിസൈൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഡിസൈൻ എന്ന് വിളിക്കാം അവ യഥാർത്ഥ നിർദ്ദേശത്തിലേക്ക് നയിക്കുന്നു നിങ്ങൾ ഒരു ഗ്രേഡ് നൽകുന്നതിനുമുമ്പ് നിർദ്ദേശങ്ങൾ പരിശോധനകൾ പരീക്ഷകൾ അസൈൻമെന്റുകൾ എന്നിവ നടത്തുന്നു വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ഫലങ്ങൾ മികച്ച രീതിയിൽ നേടിയെന്ന് നാം കണക്കാക്കുന്നു വിവിധ പോയിന്റുകളിൽ വിദ്യാർത്ഥി നേടിയ മാർക്കുകളിലൂടെയാണ് നേട്ടം കണക്കാക്കുന്നത് എന്നാൽ ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് വിലയിരുത്തൽ ശരിയാണെങ്കിൽ ഫലങ്ങളുടെ നേട്ടത്തെ പ്രതിനിധീകരിക്കും ഞാൻ വളരെ മോശം അസൈൻമെന്റ് നൽകിയാൽ അതിനർത്ഥം പ്രധാനമായും ഓർമ്മയുമായി ബന്ധപ്പെട്ടതും വളരെ പ്രവചനാതീതമായ ചോദ്യങ്ങളും വിലയിരുത്തൽ മോശമാണെങ്കിൽ ഗ്രേഡുകൾ ശരിക്കും ഫലങ്ങളുടെ നേട്ടത്തെ പ്രതിനിധീകരിക്കുന്നില്ല വിദ്യാർത്ഥികളുടെ പ്രകടനം ശരിയായി വിലയിരുത്തിയില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം മൂല്യനിർണ്ണയത്തിൽ എനിക്ക് ഉദാരചിത്തൻ ആകാൻ കഴിയും ഉദാഹരണത്തിന് വിദ്യാർത്ഥി ഉത്തരത്തിന്റെ പത്തിലൊന്ന് മാത്രം ശരിയായി എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ 5 ൽ 5 ഉം നൽകുന്നു അല്ലെങ്കിൽ 5 ൽ 4 നൽകുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വിലയിരുത്തലിൽ വളരെ കർക്കശക്കാരൻ ആകാം രണ്ട് വഴികളും ഫലങ്ങളെ ബാധിക്കുന്നു ഞാൻ കർശനനാണെങ്കിൽ ഗ്രേഡുകൾ കുറവായിരിക്കും മൂല്യനിർണ്ണയത്തിൽ ഞാൻ ഉദാരചിത്തനാണെങ്കിൽ ഞാൻ കൂടുതൽ മാർക്ക് നൽകുന്നു എന്നാൽ കൂടുതൽ മാർക്ക് കൊണ്ട് ഫലങ്ങൾ മികച്ച രീതിയിൽ കൈവരിക്കുമെന്ന് അർത്ഥമാക്കുന്നില്ല മറ്റൊരു ഭ്രാന്തൻ കാര്യമുണ്ട് അത് ഇപ്പോഴും ലോകമെമ്പാടും സംഭവിക്കുന്നു അസ്സിസ്റ്റഡ് പെർഫോമൻസ് നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു അസ്സിസ്റ്റഡ് പെർഫോമൻസ് ഞാൻ ഒരു ചെറിയ ചോദ്യ ബാങ്ക് സൃഷ്ടിക്കുന്നു ഞാൻ നിങ്ങൾക്ക് 20 ചോദ്യങ്ങൾ നൽകുന്നു അതിൽ 15 എണ്ണം പരീക്ഷയിൽ ചോദിക്കും അത് ഒരു അർത്ഥത്തിൽ അസ്സിസ്റ്റഡ് പെർഫോമൻസ് ആണ് പരീക്ഷയ്ക്കിടെ ആളുകൾ പരസ്പരം പകർത്തുമ്പോൾ ഞാൻ കണ്ടതായി നടിക്കുന്നില്ല അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ തന്നെ പരീക്ഷാസമയത്ത് എത്തി ചില സഹായം നൽകുന്നു "ഓ നിങ്ങൾ ഇത് തെറ്റാണ് ചെയ്യുന്നത് നിങ്ങൾ തെറ്റായ അനുമാനം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് " വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ നൽകുന്ന ചില സൂചനകൾ പോലെ നമ്മൾ അതിനെ വിളിച്ചു 1 അസ്സിസ്റ്റഡ് പെർഫോമൻസ് ഇത് 1 അസ്സിസ്റ്റഡ് പെർഫോമൻസ് പൂർണ്ണമായും ഇല്ലെങ്കിൽ ഗ്രേഡുകൾ ഫലങ്ങളുടെ നേട്ടത്തെ പ്രതിനിധീകരിക്കും അതിനാൽ വിലയിരുത്തൽ ശരിയായിരിക്കുമ്പോൾ മാത്രമേ outcomesനെ ഗ്രേഡുകൾ പ്രതിനിധീകരിക്കുകയുള്ളൂ അപ്പോൾ അസ്സിസ്റ്റഡ് പെർഫോമൻസ് ഇല്ല ഇപ്പോൾ ഗ്രേഡുകളും മാർക്കുകളും തീരുമാനിക്കുന്നത് നിങ്ങളുടെ instruction കൊണ്ട് മാത്രമല്ല വിദ്യാർത്ഥി നടത്തിയ പരിശ്രമവും അനുസരിച്ചാണ് എപ്പോഴാണ് അദ്ദേഹം ശ്രമം നടത്തുന്നത് ഇത് വിലയിരുത്തലിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധാരണയെ ആശ്രയിച്ചിരിക്കുന്നു ശരിയായ വെല്ലുവിളി ഉണ്ടെന്ന് വിദ്യാർത്ഥിക്ക് തോന്നുമ്പോൾ അവർ ശ്രമിക്കും ഇത് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ അവൾ ശ്രമം നടത്തുകയില്ല അത് വളരെ എളുപ്പമാണെങ്കിൽ അവൻ അവൾ ശ്രമം നടത്തുകയില്ല ചിലപ്പോൾ ഇവയെല്ലാം ഉണ്ടായിരുന്നിട്ടും ചില വിഷയങ്ങളുണ്ട് കാരണം എന്തായാലും എനിക്ക് താൽപ്പര്യമില്ല ഞാൻ പ്രചോദിതനല്ല എന്നുള്ളത് അതിനാൽ ഈ താൽപ്പര്യമില്ലാത്തതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ അധ്യാപകന് കുറച്ച് സമയം ചിലവഴിക്കേണ്ടിവരും നിങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ശ്രമം ഉചിതമായിരിക്കില്ല ഈ ശ്രമം ഉചിതമായ ഗ്രേഡോ മാർക്കോ നേടാൻ ഇടയാക്കും പരിഗണനയിലുള്ള ഏതെങ്കിലും കോഴ്സിന്റെ മുൻവ്യവസ്ഥാ ഫലങ്ങൾ കൈവരിക്കപ്പെട്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഒരു കോഴ്സിനുള്ള മുൻവ്യവസ്ഥകളെക്കുറിച്ചുള്ള എല്ലാ അറിവും വിദ്യാർത്ഥിക്ക് ഉണ്ടോ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ കോഗ്നിറ്റീവ് എബിലിറ്റി അല്ല ഉള്ളത് ചില ആളുകൾക്ക് ഒരു നിഗമനത്തിലെത്താൻ വളരെയധികം പരിശ്രമം ആവശ്യമാണ് എന്നാൽ ചില ആളുകൾക്ക് വളരെ വേഗത്തിൽ ഒരു നിഗമനത്തിലെത്താൻ കഴിയും നിങ്ങൾ ഈ കഴിവിനെ വിളിക്കുന്നതെന്തും ആയിക്കോട്ടെ ഐക്യു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലേബൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഗ്നിറ്റീവ് എബിലിറ്റിയെ അഭിസംബോധന ചെയ്യുന്നു എനിക്ക് ഉയർന്ന ഐക്യു ഉണ്ടെങ്കിൽ ഞാൻ മികച്ച പ്രകടനം നടത്താൻ സാധ്യതയുണ്ട് പച്ച നിറത്തിലുള്ള കാര്യങ്ങൾ നോക്കൂ അവയെല്ലാം കോഴ്സ് ഡിസൈൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഡിസൈനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു അധ്യാപകന് പരിചിതമാകേണ്ട ഒരു ബന്ധമാണിത് നല്ല കോഴ്സുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നല്ല കോഴ്സുകൾ വിദ്യാർത്ഥികളെ പ്രസക്തമായ എല്ലാ കോഗ്നിറ്റീവും അഫക്റ്റീവും പഠന തലങ്ങളിലേക്ക് വെല്ലുവിളിക്കുന്നു അതിനർത്ഥം നിങ്ങൾ ശരിക്കും പ്രസക്തമായ എല്ലാ കോഗ്നിറ്റീവും അഫക്റ്റീവും തലങ്ങളിലേക്ക് നോക്കുകയാണ് പുതിയ അറിവുമായി അവർ സജീവമായി ഇടപെടുന്നു കോഴ്സ് രൂപകൽപ്പനയിലൂടെ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്ന വ്യായാമങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പുതിയ അറിവുകളുമായി നിരന്തരം ഇടപഴകേണ്ടുന്ന രീതിയിൽ ആയിരിക്കണം നല്ല കോഴ്സുകളിൽ വിഷയത്തിൽ അഭിനിവേശമുള്ള അല്ലെങ്കിൽ അവയെ ഇഷ്ടപ്പെടുന്ന അവരുടെ വിദ്യാർത്ഥികളെ പരിപാലിക്കുന്ന മികച്ച അദ്ധ്യാപനവും പഠനവുമുള്ള അധ്യാപകരുണ്ട് നല്ല അധ്യാപകർ വിദ്യാർത്ഥികളുമായി നന്നായി ഇടപഴകുന്നു അവർ മികച്ച ഫീഡ്ബാക്ക് സംവിധാനങ്ങൾ വിലയിരുത്തൽ ഗ്രേഡിംഗ് ഐസിടി ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു നല്ല കോഴ്സുകൾ PO6 മുതൽ PO12 വരെയുള്ള ചില ഔട്ട്കം നേടുന്നതിലേക്ക് നയിച്ചേക്കാവുന്ന അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്നു അവയെ പ്രൊഫഷണൽ ഔട്ട്കം എന്നും വിളിക്കുന്നു കാരണം മുമ്പത്തെ കാലഘട്ടത്തിലെ കോഴ്സുകൾ സാങ്കേതിക ഉള്ളടക്കത്തിൽ മാത്രം ആയിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആശയവിനിമയം ടീം വർക്ക് തുടർച്ചയായ പഠനം സമൂഹത്തിൽ സാങ്കേതികവിദ്യയുടെ സ്വാധീനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ഔട്ക്കങ്ങളിലല്ല എന്നിരുന്നാലും എല്ലാ കോഴ്സുകളും എല്ലാ പ്രൊഫഷണൽ ഔട്ട്കമുകളെയും അഭിസംബോധന ചെയ്യില്ല അവയിൽ ചിലത് എങ്കിലും ഒരു കോഴ്സ് അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് ഒരു ചട്ടക്കൂടിന്റെയും പ്രക്രിയയുടെയും ആവശ്യകത നമ്മൾ തിരിച്ചറിഞ്ഞ ഈ സങ്കീർണ്ണ ബന്ധങ്ങളെ നാം എങ്ങനെ അഭിസംബോധന ചെയ്യും ചട്ടക്കൂട് നൽകുന്നത് എൻബിഎയും എഐസിടിഇയുമാണ് കോഴ്സുകൾ തമ്മിലുള്ള ബന്ധത്തെ പാഠ്യപദ്ധതി തിരിച്ചറിയുന്നു പ്രഖ്യാപിത പ്രോഗ്രാം ഔട്ട്കമുകളും പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കമുകളും കൈവരിക്കണമെന്ന് എൻബിഎ വ്യവസ്ഥ ചെയ്യുന്നു ഇവയെല്ലാം നമ്മൾ എങ്ങനെ ചെയ്യും ഞാൻ അവബോധപൂർവ്വം ചെയ്യുമ്പോൾ എല്ലാ വിശദാംശങ്ങളും ഉചിതമായി ശ്രദ്ധിക്കണം എന്നില്ല അതിനാലാണ് നമുക്ക് ഒരു ചട്ടക്കൂടും പ്രക്രിയയും ആവശ്യമായി വരുന്നത് പഠനം തെറ്റായ രീതിയിൽ അല്ല സംഭവിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ നമുക്ക് ഒരു പ്രക്രിയ ആവശ്യമാണ് പക്ഷേ നിർദ്ദിഷ്ട അളക്കാവുന്ന ഔട്ട്കങ്ങളുള്ള ഒരു പ്രക്രിയ ഉപയോഗിച്ച് അതിനെ വികസിപ്പിച്ചെടുക്കുന്നു ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ ഐഎസ്ഡി എന്നറിയപ്പെടുന്ന ഫ്രെയിംവർക്ക് അധ്യാപകർക്ക് ഒരു കോഴ്സ് സൃഷ്ടിക്കുന്നതിന് പിന്തുടരാവുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു ഇവ മാർഗ്ഗനിർദ്ദേശങ്ങൾ മാത്രമാണ് ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് അത് പറയില്ല ഇത് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു പക്ഷേ നിങ്ങൾക്ക് ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ മോഡൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ കോഴ്സ് രൂപകൽപ്പന ചെയ്യുകയും ചെയ്യാം നിർഭാഗ്യവശാൽ പല ഫാക്കൽറ്റി അംഗങ്ങൾക്കും ഏതെങ്കിലും ചട്ടക്കൂടിന്റെ ഉപയോഗം നിയന്ത്രിതമാണെന്നും പഠനവുമായി ബന്ധപ്പെടുത്തേണ്ട സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നുവെന്നും തോന്നുന്നു നിർദ്ദേശിക്കപ്പെടുന്ന ഏതൊരു ചട്ടക്കൂടിനോടും പല ഫാക്കൽറ്റികളുടെയും ആദ്യ പ്രതികരണം ഇതാണ് അത് വിദ്യാഭ്യാസമല്ല വിദ്യാഭ്യാസം എന്നാൽ അധ്യാപകനും വിദ്യാർത്ഥികളും പര്യവേക്ഷണം ചെയ്യേണ്ട മൊത്തം സ്വാതന്ത്ര്യമാണ് ചിലപ്പോൾ ഇത് ഒരു ഒഴികഴിവായി തോന്നാം ചിലപ്പോൾ ഒരു ചട്ടക്കൂടും അധ്യാപനത്തിനും പഠനത്തിനും സമീപം വരരുത് എന്ന ശക്തമായ വിശ്വാസവുമാകാം നിങ്ങളുടെ അക്കാദമിക് തീരുമാനമെടുക്കലിനെ ചട്ടക്കൂടുകൾ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചട്ടക്കൂട് പിന്തുടർന്നുകൊണ്ട് നിങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിക്കാൻ സഹായിക്കുക എന്ന ജോലി മികച്ച രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിരവധി ഐഎസ്ഡി മോഡലുകൾ വികസിപ്പിക്കുകയും വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്നു ഈ മൊഡ്യൂളിൽ ADDIE എന്ന ISD മോഡൽ നമ്മൾ ഉപയോഗിക്കുന്നു ADDIE ചുരുക്കരൂപം Analysis Design Development Implement and Evaluate എന്നിവയെ സൂചിപ്പിക്കുന്നു കൂടാതെ ആൻഡേഴ്സൺ ബ്ലൂം വിൻസെന്റിയുടെ പഠനം അദ്ധ്യാപനം വിലയിരുത്തൽ എന്നിവയുടെ ടാക്സോണമി നമ്മൾ ഉപയോഗിക്കുന്നു അതിനാൽ മൊഡ്യൂൾ 2 ലെ നമ്മുടെ ചട്ടക്കൂട് ആൻഡേഴ്സൺ ബ്ലൂം വിൻസെന്റി ടാക്സോണമി ADDIE ഫ്രെയിംവർക്ക് എന്നിവ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളുടെ കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിൽ നിങ്ങൾ പിന്തുടർന്ന പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരു വ്യായാമമെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് അവയെ ഒരു ഘട്ടമായി അല്ലെങ്കിൽ ഒരു ഡയഗ്രാമിന്റെ രൂപത്തിൽ മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനും ആരായാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാവരും പിന്തുടരേണ്ട ഒരു ചട്ടക്കൂടില്ല ഈ പ്രത്യേക ഇമെയിൽ ഐഡിയിൽ നിങ്ങൾ പിന്തുടർന്ന പ്രക്രിയ ഇൻസ്ട്രക്ടർമാരുമായി പങ്കിടാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ കടപ്പെട്ടിരിക്കും അടുത്ത യൂണിറ്റിൽ ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ മോഡലുകളുടെ സ്വഭാവവും പ്രത്യേകിച്ച് ADDIE ന്റെ സവിശേഷതകളും മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി